ഹലോ സെക്യൂർ സിസ്റ്റംസ് എൻജിനീയറിങ്ങിന്റെ ഈ വീഡിയോ ലെക്ച്ചറിലേക്കു സ്വാഗതം മുമ്പത്തെ ലെക്ച്ചറിൽ നമ്മൾ മാൽവെയറിനെ കുറിച്ച് പഠിക്കുകയും മാൽവെയർ എങ്ങനെ സിസ്റ്റമിനെ ബാധിക്കുന്നു എന്നതും എങ്ങനെ അവയെ തടയാം എന്നൊക്കെ പറഞ്ഞിരുന്നു ആ ചർച്ചകളത്രയും കമ്പ്യൂട്ടർ സിസ്റ്റമിനെ സോഫ്ട്വെയറിനെ ബാധിക്കുന്ന മാൽവെയറിനെ കുറിച്ച് ആയിരുന്നു ഇന്നത്തെ വീഡിയോ ലെക്ച്ചറിൽ നമ്മൾ കാണുന്നത് ഹാർഡ് വെയറിൽ അടങ്ങിയിരിക്കുന്ന മാൽവെയറുകൾ ആണ് അവ ഹാർഡ് വെയർ ട്രോജൻ എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഐ ഐ ടി ഖരഗ്പൂരിലെ പ്രൊഫസർ ദേബ് ദീപ് മുഖോപധ്യായും രജത് ശുഭ്ര ചക്രവർത്തിയും രചിച്ച ഹാർഡ് വെയർ സെക്യൂരിറ്റി ഡിസൈൻ ത്രെട്ട്സ് ആൻഡ് സേഫ് ഗാർഡ്സ് Hardware security design threats and safeguards എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ് കൂടാതെ ടെക്സാസ് A M ലെ Texas A M ഡോ ആദം വേക്സ്മാന്റെയും ജയവിജയൻ രാജേന്ദ്രന്റെയും സ്ലൈഡുകളും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഹാർഡ് വെയർ ട്രോജൻസ് ഹാർഡ് വെയറിൽ ചേർത്തിരിക്കുന്ന ട്രോജനെയാണ് ഹാർഡ് വെയർ ട്രോജൻ എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് ഒരു പ്രോസസ്സർ എടുക്കാം അതിൽ ഹാർഡ് വെയർ ട്രോജൻ ആയ ഒരു ചെറിയ ഹാർഡ് വെയർ യൂണിറ്റ് അധികമായി ഡിസൈൻ ചെയ്യുമ്പോൾ ചേർത്തിട്ടുണ്ട് ഇവയെ ആന്റി വൈറസിനോ നമ്മൾ ചർച്ച ചെയ്ത കൺഫൈൻമെൻറ് ടെക്നിക്കുകൾ OKWS ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയൺമെൻറ് എന്നിവയ്ക്കോ ഒന്നും ഹാർഡ് വെയർ ട്രോജനെ കണ്ടുപ്പിടിക്കാനോ അവയുടെ പ്രവർത്തനം തടയാനോ സാധിക്കില്ല ഈ ഹാർഡ് വെയർ ട്രോജൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സറിൽ അടങ്ങിയിരിക്കുന്ന നിഷ്ക്രിയമായ ഹാർഡ് വെയർ കംപോണന്റ് ആണ് ഇവയ്ക്ക് ഹാർഡ് വെയർ ഡിവൈസിൻറെ പ്രവർത്തനത്തിൽ ഭേദഗതി വരുത്താൻ കഴിയും അതുകൊണ്ട് തന്നെ അവയ്ക്ക് കഴിഞ്ഞ ദശകത്തിൽ സാമാന്യം നല്ല പ്രചാരം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല അവയുടെ സാന്നിധ്യം കണ്ടുപ്പിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് ശരിക്കും എന്താണ് ഈ ട്രോജൻ എന്തൊക്കെ ആണ് അതിന്റെ ഘടകങ്ങൾ സോഫ്ട്വെയറിൽ അടങ്ങിയിരിക്കുന്ന ട്രോജനെ പോലെ തന്നെ ഹാർഡ് വെയർ ട്രോജനും രണ്ടു ഭാഗങ്ങൾ ഉണ്ട് ഒന്ന് ഒരു ട്രിഗർ സർക്യൂട്ടും മറ്റേതു പേ ലോഡും ആണ് ഹാർഡ് വെയർ ട്രോജൻ ആ ഡിവൈസിൽ ആണ് അതായത് ഹാർഡ് വെയറിൽ ആണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഇത് പ്രോസസ്സറിൽ റൺ ചെയ്യുന്ന സോഫ്ട്വെയർ ലെയർസിൽ നിന്നൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കത്തക്ക വിധത്തിലാണ് ഇരിക്കുന്നത് ഈ ഹാർഡ് വെയർ ട്രോജൻസ് കുറച്ചു ഗേറ്റുകൾ അടങ്ങിയ ഒരു പാസ്സീവ് ഡിവൈസ് ആണ് അത് പൊതുവെ അങ്ങനെ പ്രവർത്തിക്കാറില്ല അതുകൊണ്ടു തന്നെ ഡിവൈസിന്റെ ഔട്പുട്ട് മോഡിഫൈ ചെയ്യാറില്ല അതിനാൽ അവയെ കണ്ടുപിടിക്കുക എന്നത് ദുഷ്കരമാണ് പൊതുവെ അവ ഒരു ട്രിഗ്ഗറിന് വേണ്ടി കാത്തിരിക്കുകയും ട്രിഗ്ഗർ കിട്ടിക്കഴിഞ്ഞാൽ നിർദ്ധിഷ്ടമായ പേലോഡ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും ഈ പേലോഡ് ഡിവൈസിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തും ഹാർഡ് വെയർ അല്ലെങ്കിൽ ട്രിഗ്ഗറിന് പല പല രൂപങ്ങൾ ഉണ്ട് നമ്മുക്ക് അത് ഈ ലെക്ചറിൽ കാണാം ഒരു ട്രിഗ്ഗർ എന്ന് പറയുന്നത് യൂസർ നൽകുന്ന ഒരു ഇൻപുട്ട് ആകാം അല്ലെങ്കിൽ ഇവിടത്തെ പോലെ അഡ്രെസ്സ് ബസ്സിൽ വരുന്ന ഒരു പ്രത്യേക അഡ്രെസ്സ് ആകാം അതായതു അഡ്രെസ്സ് ബസ്സിലെ ഈ 0xdeadbeef എന്ന ഈ അഡ്രെസ്സ് പോലെ ഈ ഇൻപുട്ട് ഹാർഡ് വെയർ ട്രോജൻ ആക്റ്റീവ് ആകുവാനും ഇത് പോലെ പേലോഡ് എക്സിക്യൂട്ട് ആകുവാനും കാരണമാകുന്നു അതുകൊണ്ട് പേലോഡ് എന്നത് മലീഷ്യസ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ട്രോജൻ പോലെ ഒന്നാണ് ഉദാഹരണത്തിന് അതിന് രഹസ്യ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഇന്റർഫേസ് മുഖേനയോ കവർ ചാനൽസ് മുഖേനയോ പുറംലോകത്തിന് ചോർത്തി കൊടുക്കാൻ കഴിയും ഇവയ്ക്കു മെമ്മറിയിൽ അതായതു കെർണൽ സ്പേസിൽ ഒരു പേജ് ഉണ്ടാക്കുകയും അതിനെ യൂസർ സ്പേസിൽ നിന്നും അക്സസ്സ് ചെയ്യാൻ തക്കവണ്ണം മോഡിഫൈ ചെയ്യും ആയതിനാൽ ഒരു യൂസർ പ്രോസസ്സിനു സിസ്റ്റത്തിലുള്ള പ്രൊട്ടക്ടഡ് ഡാറ്റ റീഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്കൊരു ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയണ്മെന്റ് ഉണ്ടെന്നു വിചാരിക്കുക ഒരു സാധാരണ അൺട്രസ്റ്റഡ് അപ്ലിക്കേഷൻ ഈ ട്രസ്റ്റഡ് എൻവയണ്മെന്റിനെ നിരീക്ഷിക്കാനും മാറ്റം വരുത്താനും സാധിക്കത്തക്ക വിധത്തിൽ ഒരു ട്രോജന് ട്രസ്റ്റഡ് എക്സിക്യൂഷനെ ഡിസേബിൾ ചെയ്യുവാനും അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുവാനോ സാധിക്കും അതായതു പേലോഡിനെ മലീഷ്യസ് ആയി എന്തും ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് അതിന് ഈ മുഴുവൻ സിസ്റ്റം ഫെയിൽ ആക്കാൻ വരെ സാധിക്കും നമുക്കിപ്പോൾ ഹാർഡ് വെയർ ട്രോജന്റെ ഒരു ചെറിയ ഉദാഹരണം എടുക്കാം ഇത് ഒരു ക്രിപ്റ്റോ ഡിവൈസ് ആണ് നിങ്ങൾ ഇത് ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് അതായത് ഒരു IC ആയി കണക്കാക്കണം ഈ IC ക്കുള്ളിൽ ഒരു ക്രിപ്റ്റോ മൊഡ്യൂൾ സീക്രെട്ട് കീ എന്നിവ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഡിവൈസ് ഒരു ഇൻപുട്ട് എടുത്തിട്ട് ക്രിപ്റ്റോ മൊഡ്യൂളിന് കീയും ഈ ഇൻപുട്ടും നൽകുന്നു അത് എൻക്രിപ്ഷൻ നടത്തി സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നു കീ രഹസ്യമായി ഇരിക്കുന്നിടത്തോളം കാലം അതായത് കീ നല്ല രീതിയിൽ ഡിവൈസിനകത്തു സംരക്ഷിക്കപ്പെട്ട രീതിയിൽ ആണെങ്കിൽ സൈഫർ ടെക്സ്റ്റിൽ ഇൻപുട്ടിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരിക്കില്ല അതിനാൽ എന്താണ് നടക്കുന്നതെന്ന് വച്ചാൽ ഈ ഡിവൈസ് ഡിസൈൻ ചെയ്യുമ്പോഴോ നിർമ്മിക്കുമ്പോഴോ നിർമ്മാതാവ് ഒരു ട്രോജൻ അതിൽ ഉൾപ്പെടുത്തും അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ഹാർഡ് വെയർ ട്രോജൻ ഉൾപ്പെടുത്തുന്നതെന്നും എന്തൊക്കെയായിരിക്കും ഈ ഹാർഡ് വെയർ ട്രോജന്റെ പ്രവർത്തികളെന്നും കാണാനായി നമുക്ക് ചെറിയ ഒരു ഉദാഹരണം എടുക്കാം അപ്പോൾ നമുക്ക് ഇത് പോലെ ഹാർഡ് വെയർ ട്രോജൻ ഉൾപ്പെടുത്താം അത് ഒരു ട്രിഗ്ഗർ സ്വീകരിക്കുന്നു അത് ഒരു മൾട്ടിപ്ലെക്സർ MUX ൻറെ സെലക്ട് ലൈൻ ആയി പ്രവർത്തിക്കുന്നു മൾട്ടിപ്ലെക്സർ ട്രിഗ്ഗറിന് 0 വാല്യൂ കിട്ടുമ്പോൾ ക്രിപ്റ്റോ മൊഡ്യൂൾ കംപ്യൂട്ട് ചെയ്ത സൈഫർ ടെക്സ്റ്റ് പാസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രിഗ്ഗറിന് 1 ലഭിക്കുമ്പോൾ കീ ഔട്പുട്ടിലേക്കു പാസ്സ് ചെയ്യുകയോ ചെയ്യുന്നു അങ്ങനെ രഹസ്യമായി സ്റ്റോർ ചെയ്തിരിക്കുന്ന രഹസ്യ ഡാറ്റ അല്ലെങ്കിൽ മറച്ചു വച്ച ഡാറ്റ ഔട്പുട്ടിൽ കാണാൻ കഴിയും ഈ ഉദാഹരണത്തിൽ ഈ ട്രിഗ്ഗറും പേലോഡും ഉണ്ട് ഈ പേലോഡ് ആണ് സെൻസിറ്റീവ് അല്ലെങ്കിൽ രഹസ്യ ഡാറ്റ ഡിവൈസിന്റെ പുറത്തേക്കു ദൃശ്യമാക്കപ്പെടാൻ കാരണം ഇനി നമുക്ക് ഹാർഡ് വെയർ ട്രോജന്റെ രണ്ടു പ്രോപ്പർട്ടീസ് നോക്കാം ആദ്യത്തേത് ഹാർഡ് വെയർ ട്രോജൻ വളരെ ചെറുതാണ് എന്നതാണ് നമുക്ക് വളരെ വലിയ ക്രിപ്റ്റോ മൊഡ്യൂൾ ആകാമായിരുന്നു പക്ഷേ ഈ ഡിവൈസ് വളരെ കോംപ്ലക്സ് ആകുമായിരുന്നു എന്നാൽ ഹാർഡ് വെയർ ട്രോജൻ മൂലമുള്ള അഡിഷണൽ മോഡിഫിക്കേഷൻ വളരെ ചെറുതാണ്ഈ കേസിൽ ഇതിനു ആവശ്യമുള്ളതു കുറച്ചു മൾട്ടിപ്ലക്സേഴ്സും ഒരു ട്രിഗർ സിഗ്നലുംആണ് ഹാർഡ് വെയർ ട്രോജൻ വളരെ ചെറുതായി ഉണ്ടാക്കാൻ കാരണം എന്താണെന്നു വച്ചാൽ ഡിവൈസിൽ നോക്കിയാലോ കോഡ് നോക്കിയാലോ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കാതിരിക്കാൻ ആണ് സൈസും ട്രാൻസിസ്റ്ററിന്റെയും ഗേററ്റിന്റെയും എണ്ണം കുറവായതിനാൽ അതിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല രണ്ടാമത്തേതും വളരെ മുഖ്യവുമായ ഘടകം ഹാർഡ് വെയർ ട്രോജൻ മിക്കവാറും പാസ്സീവ് ആണ് എന്നതാണ് ഇവിടെ ഉദാഹരണത്തിന് നമ്മളെ കാണിക്കുന്നത് ഒരു കോമ്പിനേഷണൽ ട്രോജൻ ആണ് ഇത് ഒരു ചീറ്റ് കോഡ് ആണ് ട്രിഗ്ഗർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഇൻപുട്ട് ടാപ്പ് ചെയ്തു ട്രിഗ്ഗർ സർക്യൂട്ടിലേക്കു വിടുന്നു ഈ ട്രിഗ്ഗർ ഒരു ഇൻപുട്ട് വരാനായി കാത്തിരിക്കുകയും ഇൻപുട്ട് വന്നാൽ 1 എന്ന ഔട്പുട്ട് കിട്ടുകയും ചെയ്യുന്നു നമുക്കൊരു ഉദാഹരണമായി 128 ബിറ്റസിന്റെ ഇൻപുട്ട് ലൈൻ എടുക്കാം അപ്പോൾ സാധ്യമായ ഇൻപുട്ട്സിൻറെ എണ്ണം 2128 ആയിരിക്കും ട്രിഗ്ഗർ ഒരു ചീറ്റ് കോഡിനായി കാത്തിരിക്കുകയാണ് പേലോഡ് ആക്റ്റിവേറ്റ് ചെയ്യാൻ ഇവിടെ അത് 0xcCAFEBEEF ആണ് ആയതിനാൽ ഒരു വിധം എല്ലാ കേസിലും ഹാർഡ് വെയർ ട്രോജൻ പാസ്സീവ് ആയിരിക്കും ഈ പ്രത്യേക ഇൻപുട്ട് വരുമ്പോൾ മാത്രമാണ് ട്രിഗ്ഗർ ആക്റ്റിവേറ്റ് ആകുന്നതും രഹസ്യ കീ ലീക്ക് ആക്കാൻ പേലോഡ് ഉപയോഗിക്കുന്നതും ഈ ഹാർഡ് വെയർ ട്രോജന്റെ ഡിസൈൻ മെത്തഡോളജി എന്ന് പറയുന്നത് ഈ ചീറ്റ് കോഡ് കഫേബീഫ് അറിയാവുന്നതു അറ്റാക്കർക്കു മാത്രമാണ് ഈ IC ഡിസൈൻ ചെയ്തവർക്കോ പ്രയോഗിക്കുന്നവർക്കോ യാതൊരു അറിവും ഉണ്ടാവുകയില്ല എന്നതാണ് ടെസ്റ്റിങ് നടക്കുമ്പോളോ അല്ലെങ്കിൽ സാധാരണയായി ഡിവൈസ് പ്രവർത്തിക്കുമ്പോളോ യൂസർ കഫേബീഫ് ഇൻപുട്ട് ചെയ്യാനുള്ള അസാധ്യത വിരളമാണ് അതായതു നമ്മുടെ കേസിൽ 128 bit ഇൻപുട്ടിൽ ഒരു ശരിയായ യൂസർ അഥവാ ഡിസൈനർ ടെസ്റ്റിങ്ങിൽ ഈ ഒരു ട്രിഗ്ഗർ ചീറ്റ് കോഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ½128 ആണ് ആയതിനാൽ ഇത് പോലുള്ള ട്രിഗ്ഗർ ചീറ്റ് കോഡ് സാധാരണ ടെസ്റ്റിങ്ങിലോ ഉപയോഗിക്കുബോഴോ കാണില്ല അറ്റാക്കർക്കു ചീറ്റ് കോഡ് അറിയാവുന്നതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ അറ്റാക്കർ ചീറ്റ് കോഡ് ഇൻപുട്ട് ആയി നൽകുകയും ചീറ്റ് കോഡ് സെലെക്റ്റ് ലൈൻ 1 അകാൻ ഫോഴ്സ് ചെയ്യുന്നതിനാൽ ഹാർഡ് വെയർ ട്രോജൻ ആക്റ്റിവേറ്റ് ആകുകയും രഹസ്യ കീ ഔട്പുട്ടിലേക്കു പാസ്സ് ആകാൻ കാരണമാകുകയും ചെയ്യുന്നു ഇത് ഇപ്പോൾ ആക്റ്റിവേറ്റ് ആകാൻ കാത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഇൻപുട്ടിനെ ആണ് പക്ഷേ പല പല രീതിയിലും ഈ ട്രിഗ്ഗർ ഡിസൈൻ ചെയ്യാൻ കഴിയും സ്ലൈഡ് കാണുക സമയം 1230 കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള വളരെ ജനപ്രീതിയാർജ്ജിച്ച ട്രിഗ്ഗർ ഡിസൈൻ മെത്തഡ് എന്നത് ടൈം ബോംബ്സ് അഥവാ സീക്വൻഷ്യൽ ട്രോജൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റേറ്റ് മെഷീൻ ആണ് ഇതിൽ ട്രിഗ്ഗർ ഒരു പ്രത്യേക ഇൻപുട്ട് സീക്വൻസിനായി കാത്തിരിക്കുന്നു ഉദാഹരണത്തിന് ca ഒരു ഇൻപുട്ട് അതിനു ശേഷം af കുറച്ചു സമയത്തിന് ശേഷം ee വരുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞു be പിന്നെ ef ഇത് ട്രോജനെ ആക്റ്റിവേറ്റ് ചെയ്യുകയും രഹസ്യ കീ ഔട്പുട്ടിൽ കാണുകയും ചെയ്യും അതായത് ഈ ട്രിഗ്ഗറിൽ ഇതുപോലൊരു സ്റ്റേറ്റ് മെഷീൻ ആണ് ഉള്ളത് അതിന്റെ സെലെക്റ്റ് ലൈൻറെ വാല്യൂ സാധാരണയായി 0 ആയിരിക്കും ഇൻപുട്ട് സീക്വൻസിനനുസരിച്ച് ഈ സ്റ്റേറ്റ് മെഷീൻ പല പല സ്റ്റേറ്റുകളിലൂടെ കടന്നു പോയി സെലെക്റ്റ് ലൈൻ 1 ആകുന്ന സ്റ്റേറ്റിൽ എത്തിച്ചേരുന്നു ഇതു ട്രോജനെ ആക്റ്റിവേറ്റ് ആക്കുന്നു ഇപ്പോൾ നിങ്ങള്ക്ക് മനസ്സിലാകും ഈ സീക്വൻഷ്യൽ ട്രോജൻ എന്നത് നമ്മൾ കണ്ട ചീറ്റ് കോഡ് അല്ലെങ്കിൽ കോമ്പിനേഷണൽ ട്രിഗ്ഗറിൽ വച്ച് നോക്കുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിനു കാരണം എന്ന് പറയുന്നത് സീക്വൻഷ്യൽ വാല്യൂസ് ഒന്നുകിൽ അടുത്തടുത്ത് അല്ലെങ്കിൽ പല ക്ലോക്ക് സൈക്കിൾസിലായി സ്പ്രെഡ് ചെയ്തു കിടക്കുന്നതാണ് അതിനാൽ സീക്വൻഷ്യൽ ട്രിഗ്ഗർ കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ ചെറുതാണ് ഹാർഡ് വെയർ ട്രോജൻറെ ഈ രണ്ടു ഘടകങ്ങളും വളരെ ചെറുതായതിനാലും പോരാത്തതിന് പാസ്സീവ് ആയതിനാലും ഇത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് ഹാർഡ് വെയർ ട്രോജൻറെ ഡിറ്റക്ഷൻ വളരെ ഹോട്ട് ടോപ്പിക്ക് ആണ് ഗവേഷണ പഠനത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദശകത്തിൽ അതുകൊണ്ട് തന്നെ ഹാർഡ് വെയർ ട്രോജൻ കണ്ടുപിടിക്കുന്നതിനായി പ്രസക്തിയുള്ള പല ടെക്നീക്കുകളും പഠനങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും പ്രെസൻറ് ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് ഈ വീഡിയോ ലെക്ച്ചറിലും ഒരു പക്ഷെ അടുത്തതിലും നമ്മൾ ഇതിനെ പറ്റിയുള്ള രണ്ടു ടെക്നീക്കുകൾ പ്രതിപാദിക്കും ഒരെണ്ണം FANCI എന്നറിയപ്പെടുന്നു മറ്റേത് ഒരു സർക്യൂട്ട് ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഹാർഡ് വെയർ യൂണിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതിലേക്ക് ട്രോജൻ ഉൾകൊള്ളിക്കുക എന്നത് കുറച്ചു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ഒരു ട്രോജൻ ഒരു ഹാർഡ് വെയറിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇൻസേർട്ട് ചെയ്യാം ഡിസൈൻ ചെയ്യുമ്പോൾ എന്നതാണ് ഡിറ്റക്ഷൻ കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള മറ്റൊരു കാരണം അതുകൊണ്ട് നമുക്ക് ഈ സ്ലൈഡിൽ IC ഡിസൈൻ ചെയ്യുന്നതിനും മാനുഫാക്ചർ ചെയ്യുന്നതിനുമുള്ള ഒരു വഴി കാണാം അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു IC ഡിസൈനും മാനുഫാക്ചറം ചെയ്യണമെങ്കിൽ IC യുടെ സ്പെസിഫിക്കേഷനിൽ നിന്നാണ് തുടങ്ങുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ കോൺട്രോളറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോഗ്രാഫിക് ആക്സിലറേറ്ററിനെ കുറിച്ച അല്ലെങ്ങിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നിനെ കുറിച്ചു ചിന്തിക്കുകയാണെങ്കിൽ ഈ കമ്പനി ആദ്യം ചെയ്യുന്നത് ആ ഹാർഡ് വെയർ IC യുടെ സ്പെസിഫിക്കേഷനിൽ എഴുതുക എന്നതാണ് എന്നിട്ട് ഈ സ്പെസിഫിക്കേഷൻസ് കുറെ കളേർസ് ഉള്ള ഡിസൈൻ ഫേസിലേക്കു പോകുന്നു ഈ കോഡുകൾ കൂടാതെ വളരെ അധികം തേർഡ് പാർട്ടി IP കളും മോഡലുകളും സെൽ ലൈബ്രറികളും എല്ലാം EDA ടൂൾസ് ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും പിന്നെ അത് ഫാബ്രിക്കേഷന് വേണ്ടി ഫാബ്രിക്കേഷൻ യൂണിറ്റിലേക്ക് വിടും അവിടെ മാസ്കിങ് ഉണ്ടാകും പിന്നെ ഡൈസും പാക്കേജിങും പിന്നെ പാക്കേജ്ഡ് ടെക്സ്റ്റ് അവസാനം ഡിപ്ലോയ്മെന്റും മോണിറ്റർ പ്രോസസ്സും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു IC ഡിസൈൻ മാനുഫാക്ച്ചർ പ്രോസസ്സിൽ ഇത് പോലെ കുറെ ഘട്ടങ്ങൾ ഉണ്ട് ഇതിൽ IC ഡിസൈനും മാനുഫാക്ച്ചറിങ്ങും ചെയ്യുന്ന കമ്പനി മാത്രമല്ല പങ്കെടുക്കുന്നത് വേറെ കുറെ തേർഡ് പാർട്ടി ടൂൾസും യൂണിറ്റുകളും ഉൾപ്പെടുന്നു അതായത് ഒരു IP core ഒരു തേർഡ് പാർട്ടിയുടെ വാങ്ങുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് സെല്ലും IC ഡിസൈൻ ചെയ്യാനുപയോഗിച്ച ടൂൾസ് വാങ്ങുന്നു അതുപോലെ പല കമ്പനികളും ഒരു ഓഫ്ഷോർ ഫാബ്രിക്കേഷൻ യൂണിറ്റാണ് ആണ് IC ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്നത് ഡിസൈനും മാനുഫാക്ചറിലുമുള്ള പല പല സ്റ്റെപ്പുകളിൽ വച്ച് ഓർഗനൈസഷൻ പങ്കെടുക്കുന്ന ഒരേ ഒരു സ്റ്റെപ് മാത്രമേ വിശ്വാസയോഗ്യമായിട്ടുള്ളുഅതാണ് സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കലും പാക്കേജ് ടെസ്റ്റിംഗും അതാണെങ്കിൽ ചിപ്പ് ഫാബ്രിക്കേഷൻ ഡിപ്ലോയ്മെന്റ് മോണിറ്ററിങ് എന്നിവക്ക് ശേഷമാണ്താനും ഈ മൂന്ന് സ്റ്റെപ്പിൽ കൂടാതെ ഈ പ്രോസസ്സിലെ ഏതു സ്റ്റെപ്പിൽ വേണമെങ്കിലും ട്രോജൻ ഇൻസേർട്ട് ചെയ്യാം ഉദാഹരണത്തിന് മറുപക്ഷത്തുള്ള പ്രോഗാമർക്കു ഡിസൈൻ ഫേസിൽ ട്രോജൻ ഉൾപ്പെടുത്താം തേർഡ് പാർട്ടികളിൽ നിന്ന് മേടിക്കുന്ന IP കോറിൽ ട്രോജൻ ഉണ്ടാകാം അത് കാണാൻ എളുപ്പത്തിൽ കഴിയില്ല സ്റ്റാൻഡേർഡ് സെൽസ് പോലുള്ള ടൂൾസ് ലൈബ്രറീസ് എന്നിവയും ഡിവൈസിലേക്കു ട്രോജൻ ഇൻസേർട്ട് ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെടാം ഡിസൈൻ ഫെസിനെ കൂടാതെ ഡിസൈൻ മാനുഫാക്ചർക്ക് നൽകി കഴിയുമ്പോൾ ഓഫ്ഷോർ മാനുഫാക്ചറിങ് കമ്പനികളും ഡിവൈസിൽ ട്രോജൻ ഇൻസേർട് ചെയ്യാം അതായത് സത്യത്തിൽ IC ഡെവലൊപ്മെന്റ് മാനുഫാക്ചാറിങ്ങിന്റെ പല സ്റ്റേജുകളിൽ എവിടെവച്ചു വേണേലും ഹാർഡ്വെയർ ട്രോജൻ ഇൻസേർട് ചെയ്യപെടാം ഈ ട്രോജനെ കണ്ടുപിടിക്കുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അതുകൊണ്ടുതന്നെ ട്രോജൻ ഇല്ലാതെ IC ഡിസൈൻ ചെയ്യുക എന്നത് വളരെ ചിലവേറിയ കാര്യമാണ് അതുകൊണ്ട് അടുത്ത വീഡിയോ ലക്ച്ചറിൽ നമുക്ക് FANCI എന്ന ഒരു ടൂൾ എടുക്കാം എന്നിട്ട് നമുക്ക് ഹാർഡ്വെയറിന്റെ ഡിസൈനിൽ ഹാർഡ്വെയർ ട്രോജൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ലൊക്കേഷൻസ് എങ്ങനെ FANCI ഡിറ്റക്ട് ചെയ്യുന്നു എന്നത് കാണിക്കാം